ഈ സർക്യൂട്ട് ഇതുപോലെയാണ് അതിനാൽ ഇത് r ഉദാഹരണമാണ് 12 ഈ പ്രശ്നത്തിൽ ഇത് ചോദിച്ചു അത് V 1 കണ്ടെത്തണം ഇത് നോഡ് 1 V 2 ആണ് അത് നോഡ് 2 ഉം തുടർന്ന് നോഡ് 3 V 3 ഈ 3 നോഡൽ വോൾട്ടേജുകളും തുടർന്ന് ഈ നിലവിലെ i 2 കണ്ടെത്തേണ്ടതുണ്ട് ഈ സർക്യൂട്ടിനായി പരിഹരിക്കേണ്ട 4 അളവുകൾ ഇവയാണ് ഇവിടെ കറന്റ് നൽകിയിട്ടുണ്ട് i1 മറ്റ് ബ്രാഞ്ച് വൈദ്യുതധാരകൾ നൽകിയിട്ടില്ല പക്ഷേ കുറച്ച് കറന്റ് അനുമാനിക്കുകയും അതിനനുസരിച്ച് പരിഹരിക്കേണ്ടതുമാണ് ഉദാഹരണത്തിന് ഈ ബ്രാഞ്ച് കറന്റ് i3 ആണെങ്കിൽ ഈ ദിശയിലേക്കാണ് പോകുന്നതെന്ന് കരുതുക ഈ നിലവിലെ i4 ഉം ഈ കറന്റും ഉദാഹരണത്തിന് i5 എടുക്കുകയാണെങ്കിൽ കാരണം പിന്നീട് നിരവധി ഉദാഹരണങ്ങൾ പരിഹരിച്ചു അതിനാൽ പിന്നീട് യഥാർത്ഥത്തിൽ എല്ലാ i3 i4 i5 ഉം നേരിട്ട് എഴുതിയിട്ടില്ല എന്നാൽ അത്തരം കാര്യങ്ങൾ എപ്പോൾ ചെയ്യും എന്നതാണ് ആദ്യം i1 എന്തായിരിക്കുമെന്ന് നോക്കുക തുടക്കത്തിൽ ഈ റഫറൻസ് നോഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നോഡ് വോൾട്ടേജിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഗ്രൌണ്ടാണ് അതിനാൽ റഫറൻസ് നോഡ് വോൾട്ടേജ് v 0 0 ഇത് അറിയാം അതിനാൽ ആദ്യം വി 1 നുള്ള r എക്സ്പ്രഷൻ കണ്ടെത്തണം സർക്യൂട്ടിനെ നോക്കുന്നതിന് ചിലതരം കാര്യങ്ങളുണ്ടാകാം പക്ഷേ ഇത് പ്രത്യേകമായി നിർമ്മിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ v 1 ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ട് അതിനർത്ഥം ഇത് v 1 ആണെന്നും അത് ഇവിടെ നിന്ന് ഇവിടെയാണെന്നും കരുതുക ഇവിടെ നിന്ന് ഇത് നെഗറ്റീവ് ആണെന്നും ഇത് പോസിറ്റീവ് ആണെന്നും കരുതുക അതിനാൽ ഈ രീതിയിൽ ആദ്യം ചെയ്യാൻ കഴിയുന്നത് ആദ്യം ഇതുപോലുള്ള r KVL പ്രയോഗിക്കുക എന്നതാണ് അതിനാൽ ഇതുപോലുള്ള r KVL പ്രയോഗിക്കുക എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ സമാനമായ മറ്റൊരു ഡയഗ്രം വരയ്ക്കുക പക്ഷേ വ്യത്യസ്ത രീതിയിൽ ഇത് ഇത് 12 വോൾട്ട് സോഴ്സാണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് യഥാർത്ഥത്തിൽ 4 Ω പ്രതിരോധമാണ് അതിനർത്ഥം ഇതും ഇതും r കറന്റ് i1 ആണ് ഇവിടെ ഇത് r നോഡ് 1 ആണ് 4Ω ന് ശേഷമുള്ള ഈ പോയിന്റ് ഇത് r നോഡ് 1 ആണ് അതിനാൽ റഫറൻസ് ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ട് ഈ പോയിന്റ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കിയത് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ r v1 ആണ് ഇത് v1 ആണ് ഇപ്പോൾ ഈ രീതിയിൽ പ്രയോഗിക്കുക r KVL പ്രയോഗിക്കുക അതിനാൽ ഇത് നേരിടുന്നു ടെർമിനൽ അതിനാൽ 12 4 i1 ഇത് 4 i1 ഇത് 4Ω ഉം ഈ കറന്റ് i1 ഉം v1 0 ന് തുല്യവുമാണ് അതായത് i1 കറന്റ് r 12 ആയിരിക്കും v1 4 അതിനാൽ അതിനർത്ഥം ഇവിടെ ഈ കറന്റ് വീണ്ടും ഇവിടെ മാറ്റിയെഴുതുന്നു അതിനാൽ i1 r 12 v1 4 ഇത് i1 ആണ് ആദ്യം നോഡ് 1 ൽ r KCL പ്രയോഗിക്കണം ഇത് നോഡ് 1 ആണ് അതിനാൽ i3 എടുത്താൽ i3 v1 v3 ഉം ഈ പ്രതിരോധം 6 ഉം ആയിരിക്കും അതിനാൽ ഇത് v1 v3 6 ഇത് r i3 ആണ് സമാനമായി i4 എന്നതിനർത്ഥം ഈ ശാഖയിൽ i4 പ്രതിരോധം 6 ആണ് അതിനാൽ i4 r v1 v2 v1 v2 ന് 6 ന് അതിനാൽ ഈ നോഡ് 1 ൽ ഞാൻ ഇവിടെ നോക്കുന്നു i1 ഇതാണ് ഇൻകമിംഗ് കറന്റ് i3 i4 ഔട്ട്ഗോയിംഗ്കറന്റുകളാണ് അതിനാൽ KCL പ്രയോഗിച്ചാൽ i3 i4 യഥാർത്ഥത്തിൽ ഈ പരീക്ഷണങ്ങളെല്ലാം ഇവിടെ തന്നെ നിർമ്മിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനർത്ഥം നോഡ് 1 ൽ r KCL പ്രയോഗിക്കുകയാണെങ്കിൽ അത് എഴുതിയത് 12 v1 ന് 4 v1 v3 ആയിരിക്കും നേരിട്ട് 6 നകം എഴുതാൻ കഴിയും ഈ ദിശ കറന്റ്സും ഈ ദിശയും i3 i4 എന്നിവയാണ് അതിനാൽ ഇത് i3 ഉം i4 യഥാർത്ഥത്തിൽ r v1 v2 ന് 6 ഉം ആണ് അതിനാൽ ഇത് നോഡ് 1 ലെ r KCL ആണ് അതായത് നോഡ് 1 ൽ ഇത് 12 v1 ന് 4 v1 v3 ന് 6 7 v1 2 v2 2 v3 36 ലളിതമാക്കിയാൽ ഇത് സമവാക്യം 1 അതുപോലെ തന്നെ r KCL എന്ന് വിളിക്കുന്ന r പ്രയോഗിക്കുക നോഡ് 2 ലെ KCL ഇവിടെ പ്രയോഗിക്കുന്നു ഈ കറന്റ് i4 എടുത്തു ഈ കറന്റ് i3 എടുത്തു ഇത് i5 എടുത്തു ഒരു കറന്റ് സോഴ്സ് ഉണ്ട് 2 ആമ്പിയർ കറന്റ് സോഴ്സ് ഉണ്ട് ഇത് പ്രയോഗിക്കുകയും അത് i1 i5 ആണെങ്കിൽ ഇവിടെ മറ്റൊരു കറന്റ് എടുക്കാം അതിനാൽ ഈ കറന്റ് ഇവിടെ ഉണ്ടെങ്കിൽ i6 അതിനാൽ നോഡ് 2 ലെ r KCL അപ്പോൾ ഈ i4 ഇൻകമിംഗ് ആണ് ഈ കറൻറ് ഇൻകമിംഗ് ആണ് i4 എന്നാൽ i6 ഉം i2 ഉം ടെർമിനലിൽ ജീവിക്കുന്ന മറ്റ് കറൻറ് r i6 i2 അതിനാൽ നോഡ് 2 ൽ r KCL പ്രയോഗിക്കുന്നു ഈ സാഹചര്യത്തിൽ 6 r i6 ന് i4 r v1 v2 അതായത് ഈ ബ്രാഞ്ച് കറന്റ് i6 ആണ് അതിനാൽ ഇത് 6 ന് v2 v3 ആണ് ഈ r നില സാധ്യത 0 ആണ് അതിനാൽ ഇത് r v2 012 ആണ് കാരണം ഇത് 12Ω റെസിസ്റ്ററാണ് നോഡ് 2 ൽ r KCL പ്രയോഗിച്ചാൽ ഇതാണ് സമവാക്യം അതായത് ഇത് നോഡ് 2 ലാണ് ഇതാണ് സമവാക്യം അതിനാൽ v1 v2 ന് 6 v2 ന് 12 v2 v3 ന് 6 ലളിതവൽക്കരണത്തിന് 2 v1 5 v2 v2 ലഭിക്കും ഇത് 0 ഇത് സമവാക്യം 2 ആണ് അതുപോലെ നോഡ് 3 ൽ വന്നാൽ ഇത് r നോഡ് 3 ആണ് അതിനാൽ സമാനമായ രീതിയിൽ r KCL പ്രയോഗിക്കാൻ കഴിയും പക്ഷേ ഇവിടെ നിന്ന് താഴെയല്ല കാരണം ഈ 2 ആമ്പിയർ കറന്റ് പ്രവേശിക്കുന്നു ഈ 2 ആമ്പിയർ കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുന്നു ഇതും r i2 i3 ആണ് ഈ i3 ഇവിടെ പ്രവേശിക്കുന്നു മറ്റൊരു കാര്യം ഈ കറന്റ് i6 ഉം ഇവിടെ പ്രവേശിക്കുന്നു ഈ കറന്റ് i5 ഇത് ഈ ടെർമിനലിൽ നിന്ന് പുറത്തുപോകുന്നു അടിസ്ഥാനപരമായി ഇത് 2 ആയിരിക്കും കാരണം ടെർമിനലിലേക്ക് പ്രവേശിക്കുന്ന ഈ 2 ആമ്പിയർ വൈദ്യുത പ്രവാഹങ്ങൾക്ക് i3 ഉണ്ട് ഈ എൻട്രി i6 r i5 നോഡ് 3 ൽ KCL പ്രയോഗിക്കുന്നു അതായത് i3 r i6 ന് v1 v2 12 ന് 6 i5 r v3 ന് i6 v2 v3 കാരണം ഇവിടെ അത് ഗ്രൌണ്ട് പൊട്ടൻഷ്യൽ ആൺ അത് ഇട്ടു വ്യക്തമാക്കിയാൽ ഇത് ലഭിക്കും അതിനാൽ നോഡ് 3 ൽ ഇത് r ആണ് ഇതാണ് സമവാക്യം ലളിതമാക്കുമ്പോൾ 3 എന്ന സമവാക്യം ലഭിക്കും അതിനാൽ ക്ലാമർസ് റൂളോ മറ്റോ ആഗ്രഹിക്കുന്ന രീതിയിൽ 1 2 3 സമവാക്യം പരിഹരിക്കുക ഈ ഫോമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുക r x v v1 v2 v3 ഈ സമവാക്യം അതിനാൽ ഹോവർ പരിഹരിക്കുക ക്ലാമർസ് റൂൾ വേണം v1 12 വോൾട്ട് v2 r 727 വോൾട്ട് ലഭിക്കും ഇത് r v1 ആണ് ഇത് r v2 727 വോൾട്ട് ആണ് ഇത് r v3 ഉം കറന്റ് i1 12 v1 ന് 4 ഉം ആണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് 0 ആമ്പിയർ ആണ് കറന്റ് കൂടാതെ 4 Ω റെസിസ്റ്ററിൽ 0 ആണെന്നും രണ്ടാമത്തെ കാര്യം ബാക്കിയുള്ള 5 റെസിസ്റ്ററുകളിൽ r ഉണ്ടെന്നും കണ്ടെത്തണം ശേഷിക്കുന്ന 5 റെസിസ്റ്ററിൽ ഇത് എഴുതിയിട്ടുണ്ട് അതിനാൽ ഇതിന് 5 റെസിസ്റ്റർ 4 Ω 6 Ω 6 Ω 6Ω ഉണ്ട് ഈ i1 കറന്റ് 0 ആയി മാറുന്നു ഇവിടെ അലിഞ്ഞുചേർന്നത് 0 ആണ് അതിനാൽ i1 എന്നത് 0 ആണ് ബാക്കി 1 2 3 4 ഉം 5 ഉം ഈ 5 റെസിസ്റ്ററുകൾ ഉണ്ട് അതിനാൽ വ്യായാമം എഴുതിയിട്ടുണ്ട് പക്ഷേ കുറച്ച് കൂടി ചെയ്യുക ഇത് ഇതിനുള്ള ഒരു പ്രോബ്ലെമാണ് ശേഷിക്കുന്ന 5 റെസിസ്റ്ററുകളിൽ ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് r ന്റെ അടിസ്ഥാനത്തിൽ കറന്റ് കണ്ടെത്തുക അടിസ്ഥാനപരമായി r പൊതുവായി കണ്ടെത്തുക v1 v2 വരുന്നതെന്തും ഗുണിച്ചാൽ സമചതുരവും ആ ശാഖയുടെ r ഗുണിതവുമാണ് അതിനാൽ ആത്യന്തികമായി അത് ഏത് വഴിയാണ് വരുന്നതെന്ന് കണ്ടെത്തും അതിനാൽ ഇത് പ്രോബ്ലെമാണ് ഉത്തരം 27 പോയിന്റ് r 4 2 വാട്ട്സ് ആയിരിക്കും അതിനാൽ വോൾട്ട് 2 ആമ്പിയറിലുണ്ട് കറന്റ് സോഴ്സ് 96 ന് 7 വോൾട്ടിലും 2 ആമ്പിയർ കറന്റ് സോഴ്സ് വിതരണം ചെയ്യുന്നത് 90 ആണ് അത് v i ആണ് അതിനാൽ കറന്റ് സോഴ്സിലുടനീളമുള്ള വോൾട്ടേജാണ് v3 ഇത് r ആണ് കാരണം സർക്യൂട്ടിലേക്ക് നോക്കിയാൽ ഈ v3 യഥാർത്ഥത്തിൽ ഈ വോൾട്ടേജ് v3 ആണെന്ന് കണ്ടെത്തും യഥാർത്ഥത്തിൽ ഈ വോൾട്ടേജ് v3 ആണ് കൂടാതെ 2 ആമ്പിയർ കറന്റ് പ്രവേശിക്കുന്നു അതിനാൽ കറന്റ് v3 2 വിതരണം ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത് 967 2 42 വാട്ട് ഇവിടെ നോക്കൂ ഇത് 27 42 വാട്ട് കറന്റ് സോഴ്സ് നൽകിയതെല്ലാം കണ്ടാൽ സർക്യൂട്ടിൽ i1 0 അതായത് വോൾട്ടേജ് ഉറവിടം നൽകുന്നത് 12 i1 എന്നാൽ i1 0 അതായത് ഈ സർക്യൂട്ട് കോൺഫിഗറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ വോൾട്ടേജ് ഉറവിടം നൽകില്ല കറന്റ് സോഴ്സ് വഴിയാണ് എല്ലാം സപ്പ്ലൈ ചെയുന്നത് അടുത്തതായി നോഡൽ വിശകലനം ഉപയോഗിച്ച് ഈ പ്രശ്നത്തിലേക്ക് വരുന്നത് ചിത്രം 18 ൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ടിന്റെ v1 v2 i1 i2 i3 i4 എന്നിവ നിർണ്ണയിക്കുക അതിനാൽ r i1 i2 i3 i4 v1 v2 എന്നിവയെ എന്താണ് വിളിക്കുന്നതെന്ന് ഇവിടെ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്നതാണ് ചോദ്യം ഒരു വോൾട്ടേജ് സോഴ്സ് ഇതിനിടയിൽ 2 നോൺ റഫറൻസ് നോഡ് വി 1 വി 2 ഉണ്ടെന്നും ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 2Ω റെസിസ്റ്റൻസ് ആദ്യം എന്താണ് r എന്താണ് r i2 എന്ന് കണ്ടെത്തണം അതിനാൽ ഇത് റഫറൻസ് വോൾട്ടേജാണ് ഈ വോൾട്ടേജ് 0 v 0 0 ഉം ഇത് r v1 ഉം ഇത് r v2 ഉം ആണ് അതായത് ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ v1 ഇത് എടുക്കും ഇതാണ് ഇത് മറ്റൊരു വോൾട്ടേജാണ് ഇത് v2 അതിനാൽ ഈ വോൾട്ടേജ് v2 അതിനാൽ ഇത് ഇതാണ് ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ v1 v2 നോഡൽ വോൾട്ടേജിനെ r യുമായി ബന്ധപ്പെട്ട് കറന്റ് പരാമർശിക്കുന്നു അതിനാൽ ഇതിൽ ആദ്യം i2 കണ്ടെത്തണം അതിനാൽ ആദ്യം KVL പ്രയോഗിക്കുക അതിനാൽ ഘടികാരദിശയിൽ അല്ലെങ്കിൽ വിപരീതമായി എടുക്കുക ഉത്തരം സമാനമായി തുടരും അതിനാൽ ഈ രീതിയിൽ ചെയ്താൽ ആദ്യം കാര്യങ്ങൾ എങ്ങനെ വരുന്നുവെന്ന് നോക്കൂ അത് ഇവിടെ 2 i2 ആക്കും കാരണം ഇതാണ് കറന്റ് i2 ഇവിടെ ടെർമിനൽ ഇവിടെ ഇത് അതിനാൽ ഇത് v2 v2 ആണ് പിന്നെ ഇവിടെയുണ്ട് അത് അഭിമുഖീകരിക്കുന്നു v1 എന്നിട്ട് ഇത് ഇതുപോലെ നീങ്ങുന്നു വീണ്ടും ഘടികാരദിശയിൽ കണ്ടുമുട്ടുന്നു ടെർമിനൽ അതിനാൽ 32 0 അതായത് 2 i2 അത് v1 v2 32 ആയിരിക്കും അതായത് 2 i2 അതായത് i2 v1 v2 32 2 ഇത് i2 ന്റെ പദപ്രയോഗമാണ് ആദ്യം i2 എന്തായിരിക്കുമെന്ന് മനസിലാക്കണം അതിനാൽ i2 v1 ആയിരിക്കും മുമ്പും അത്തരം ഉദാഹരണങ്ങൾ എടുത്തതായി അറിയാം അതിനാൽ ആശയക്കുഴപ്പത്തിന്റെ വ്യാപ്തി ഉണ്ടാകരുതെന്ന് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും അതായത് i2 നുള്ള എക്സ്പ്രഷൻ കാരണം നോഡ് 1 ൽ KCL ഉം നോഡ് 2 ൽ KCL ഉം പ്രയോഗിക്കും അതിനാൽ i2 ആവശ്യമാണ് അതിനാൽ ഇത് എക്സ്പ്രഷൻ v1 v2 322 ആണ് അതിനർത്ഥം ഇപ്പോൾ നോഡ് 1 ൽ r KCL പ്രയോഗിക്കേണ്ടതുണ്ട് നോഡ് 1 ൽ r കെസിഎൽ പ്രയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇതാണ് 9 ആമ്പിയർ കറന്റ് സോഴ്സ് 9 ആമ്പിയർ കറന്റ് പ്രവേശിക്കുന്നു ഇവിടെ ഇത് 9 ആമ്പിയർ ആണ് ഇപ്പോൾ i1 i2 എഴുതണം അതിനാൽ അടിസ്ഥാനപരമായി ഈ 9 ആമ്പിയർ കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുന്നു ഈ i3 i2 i1 എന്നിവയെല്ലാം നോഡ് ഉപേക്ഷിക്കുന്നു അതിനർത്ഥം ഇത് എഴുതുകയാണെങ്കിൽ അത് i1 i2 i3 9 ആയിരിക്കണം അതിനാൽ ഈ 9 ആമ്പിയർ പ്രയോഗിക്കുന്നതിനാൽ ഈ i1 i2 i3 നോഡ് 1 വിടുന്നു അതായത് i1 i2 അതിനാൽ i1 v1 ഈ വോൾട്ടേജ് റഫറൻസ് ഗ്രൌണ്ട് സാധ്യത 0 ആയതിനാൽ അടിസ്ഥാനപരമായി i1 ഇവിടെ എഴുതുന്നു അതിനാൽ 5 ന് i1 r v1 ഇത് 5 ന് v1 ഉം തുടർന്ന് r i3 ഉം ആണ് i3 ഇതുപോലെ ഒഴുകുന്നു അത് v1 4Ω അത് v1 മുതൽ v2 വരെ 4Ω റെസിസ്റ്റൻസ് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ എഴുതുന്നത് r i3 v1 v2 v1 v2 ഈ 4 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ i2 ഇടുക i1 i2 i3 എല്ലാം 9 ഇത് r ന്റെ ആദ്യ സമവാക്യമായിരിക്കും അതിനെ r v1 v2 എന്നിങ്ങനെ വിളിക്കുന്നു അതിനാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നോഡ് 1 ൽ r ഉം ഇതാണ് r ഇതാണ് സമവാക്യം 9 അതിനാൽ i2 എന്നത് v1 v2 322 ആണ് ലളിതമാക്കുകയാണെങ്കിൽ ഇത് r സമവാക്യം 1 ആണ് അതുപോലെ തന്നെ നോഡ് 2 ൽ KCL പ്രയോഗിക്കുക ഇപ്പൊ കുറച്ഛ് സ്ലോ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് എനിക്കറിയാം എന്നാൽ കുറച്ഛ് കഴിഞ് സ്പീഡ് കൂട്ടാം ഇപ്പോൾ അടുത്തത് r നോഡ് 2 ആണ് അതിനാൽ ഈ നോഡിലേക്ക് 4 ആമ്പിയർ കറന്റ് പ്രവേശിക്കുന്നു ഇത് 4 ആണ് r KCL പ്രയോഗിച്ചതിന് ശേഷം 4 ഉം i2 ഉം കാണുക i2 4 ആമ്പിയർ ഈ 2 നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ i2 4 ഇവ രണ്ടും പ്രവേശിക്കുന്നു ഇപ്പോൾ മറ്റൊന്ന് i3 ഈ കറന്റിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ i3 i4 i4 വിടുകയാണ് അതിനാൽ 4 i2 i3 i4 അതിനാൽ i3 വി 4 ന് v1 v2 ഉം r i4 r i4 ഉം 10 ന് v2 0 എന്ന് എഴുതാം അടിസ്ഥാനപരമായി ഇത് 10 ന് 0 ആണ് ഇത് i4 ഉം r i2 വികസിപ്പിക്കുമ്പോൾ ഇതിനകം v1 v2 322 ഉം ലഭിച്ചു അതിനാൽ മറ്റുള്ളവ അതുപോലെ സുബ്സ്ടിട്യൂറ്റ് ചെയുക അപ്പോൾ ലഭിക്കും അതിനാൽ നോഡ് 2 ൽ ഇതാണ് ആ സമവാക്യം അതിനാൽ ലളിതമാക്കിയതിനുശേഷം 15 v1 17 v2 40 ലഭിക്കും 1 2 എന്നീ സമവാക്യങ്ങൾ പരിഹരിക്കുക കാരണം 2 അജ്ഞാതമാണ് v1 v2 എന്നിവ പരിഹരിച്ചാൽ v1 r ഈ 50 വോൾട്ട് v2 30 വോൾട്ടും i1 v1 5 ഉം ആണെങ്കിൽ i1 10 ആമ്പിയർ i2 v1 v2 322 പരിഹരിക്കുക അത് i2 6 ആമ്പിയർ ആയിരിക്കും അതായത് വൈദ്യുതധാരകൾ യഥാർത്ഥത്തിൽ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന മറ്റ് ദിശകളിലേക്ക് ഒഴുകുന്നു അത് മറ്റൊരു ദിശയിൽ കാണിച്ചാൽ i3 5 ആമ്പിയറും i4 3 ആമ്പിയറും ലഭിക്കും അതിനാൽ ഇത് പരിഹരിക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് ലഭിക്കുമ്പോഴെല്ലാം ബുദ്ധിമുട്ടുള്ള പ്രശ്നവും ലളിതമായ പ്രശ്നവുമെല്ലാം പരിഗണിക്കുന്നു അടുത്തത് ഈ 19 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ നോഡ് വോൾട്ടേജുകൾ v1 v2 v3 v4 നിർണ്ണയിക്കുന്നു അതിനാൽ v1 v2 v3 v4 കണ്ടെത്തണം ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇത് ശ്രദ്ധാപൂർവ്വം നോക്കുക ഇത് യഥാർത്ഥത്തിൽ ഒരു സാധാരണ നോഡാണ് കാരണം അതിന്റെ അടിസ്ഥാനപരമായി ഇവ രണ്ടും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് v 3 ആണെങ്കിൽ ഇതും v 3 ആണ് അതുപോലെ ഈ രണ്ട് നോഡുകളും സാധാരണ നോഡാണ് കാരണം ഈ രണ്ടിനുമിടയിൽ വൈദ്യുത ഘടകങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ പോയിന്റും ഈ പോയിന്റും സമാനമാണ് കാരണം വൈദ്യുത ഘടകങ്ങളൊന്നുമില്ല അതിനാൽ അടിസ്ഥാനപരമായി ഇവിടെ ഇത് 4 എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെയും ഇത് v 4 ആണ് നോഡ് നമ്പർ 4 ആണെങ്കിൽ ഇത് 4 ഉം ആണ് മറ്റൊരു കാര്യം ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് v2 ഉം ഇത് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് v2 പിന്നീട് കണ്ടെത്തുക അടിസ്ഥാനപരമായി എത്ര നോഡുകൾ ഉണ്ടെന്ന് കണ്ടെത്തണം 3 നോഡ് ഉണ്ട് ഒന്ന് ഇവിടെയുണ്ട് ആദ്യം ഇതിലേക്ക് ഒന്ന് നോക്കുക മറ്റൊന്ന് ഇവിടെ v 3 മറ്റൊന്ന് v 4 ഇവയെല്ലാം KCLല്ലിന് ബാധകമാണ് അതിനാൽ വൈദ്യുതധാരകൾ കണ്ടെത്തുമ്പോൾ ഇത് പരിഹരിച്ചതിന് ശേഷം മറ്റൊരു കാര്യം v2 എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി ഈ നോഡുകൾ പൊതുവായതാണെങ്കിൽ ഇത് രണ്ടും ഒരു സാധാരണ നോഡാണ് സമാനമായി ഇവ കോമൺ നോഡാണ് ആദ്യം സർക്യൂട്ട് നോക്കുന്നത് മനസിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത് പരിഹരിക്കാനും കഴിയും കാരണം ഈ വയർ തമ്മിൽ വൈദ്യുത ഘടകങ്ങളൊന്നും ഉൾപ്പെടുന്നില്ല ഇവിടെ നമുക്ക് ഒരു വോൾട്ടേജ് ഉറവിടമുണ്ട് ഇവിടെയും ഇവിടെയും ഒരു കറന്റ് സോഴ്സ്മുണ്ട് ഇവിടെയും ഒരു ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ്മുണ്ട് പരിഹരിക്കപ്പെട്ടതും നിരവധി പ്രശ്നങ്ങൾ ഉള്ളതുമായതിനാൽ നമുക്ക് ഇവിടെ നിന്നും അടുത്തതിലേക്ക് പോകാം അതിനാൽ നോഡ് 1 ൽ KCL പ്രയോഗിക്കുക നോഡ് 1 ൽ KCL പ്രയോഗിക്കുന്നുണ്ടോയെന്ന് നോക്കുക ഇത് r ഗ്രൌണ്ട് പൊട്ടൻഷ്യൽ ആൺ ഇപ്പോൾ i1 i2 എന്ന ചോദ്യമൊന്നും എഴുതിയിട്ടില്ല അതിനാൽ ഇത് പരിശോധിച്ചാൽ ഇത് ഗ്രൌണ്ട് പൊട്ടൻഷ്യൽ ആൺ അതിനാൽ നോഡ് 1 ൽ ഇത് r നോഡ് 1 ആണ് അതിനാൽ ഒന്ന് 2 ന് r v1 r ആണ് അതിനാൽ ഈ വൈദ്യുതധാര ഈ വൈദ്യുതധാരയെ വിടുന്നത് 2 ന് v1 ആണ് ഇത് 2 Ω പ്രതിരോധമാണ് ഇത് 2 ന് v1 ആണ് മറ്റൊരു കാര്യം ഈ v1 v3 എന്നിവയാണ് ഇവിടെ ഒരു Ω പ്രതിരോധം ഉണ്ട് അത് g 1 മുകളിലാണ് പക്ഷേ സർക്യൂട്ട് താഴേക്കിറങ്ങുന്നത് ഒരു Ω പ്രതിരോധം ആയിരിക്കും അതിനാൽ ഇവിടെ വൈദ്യുതപ്രവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് r v1 v3 ന് 1 എന്ന് വിളിക്കുന്ന r ആയിരിക്കും അതിനാൽ ഇത് 1 ന് v1 v3 ആണ് മറ്റൊരു കറന്റ് കൂടി പോകുന്നു സമാനമായി മുമ്പത്തെപ്പോലെ ഇവിടെയും 6 Ω പ്രതിരോധവും 140 വോൾട്ട് സോഴ്സും ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ r എന്താണെന്നറിയുക ഇത് എളുപ്പമാക്കുന്നു ഈ കറന്റ് ഈ കറന്റ് ഈ കറന്റും ഗ്രൌണ്ടിനോട് അനുബന്ധിച്ചാണെന്ന് കരുതുക അതിനർത്ഥം ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ v1 ആണ് ഇത് v1 അതുപോലെ തന്നെ ഈ വോൾട്ടേജ് r ഉം ഇത് v3 ആണ് ഉം ഇതിനർത്ഥം ഈ വോൾട്ടേജ് എന്നാണ് ഇതാണ് വോൾട്ടേജ് ഉറവിടം ഇപ്പോൾ എന്തുചെയ്യും അങ്ങനെ ചെയ്താൽ കെവിഎൽ ഘടികാരദിശയിൽ പ്രയോഗിക്കുക അപ്പോൾ അത് 6 i6 ആയിരിക്കും അത് അഭിമുഖീകരിക്കുന്നു ഒരു ടെർമിനലിന് r 40 എന്നിട്ട് 40 v3 കാരണം ഇത് ടെർമിനൽ v 3 നേരിടുന്നു തുടർന്ന് ഇവിടെ ആയിരിക്കും v1 v1 0 അതായത് r അത് v1 40 v3 6 ആയിരിക്കും ഇത് r i അതിനാൽ ഈ കറന്റുകളെലാം ഈ കറന്റും ടെർമിനലിൽ നിന്ന് പുറത്തുപോകുന്ന ഈ കറന്റും അതായത് v1 2 v1 v3 1 ഇത് എടുത്തതാണ് v1 40 v3 ന് 6 ന് ഇത് 0 നിങ്ങൾ മനസിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നോഡ് 3 ലും നോഡിലും ഇത് ഇവിടെ പ്രയോഗിക്കരുത് ഇത് യഥാർത്ഥത്തിൽ ഇന്റർമീഡിയറ്റ് പോയിന്റാണ് ഇത് v 1 v 3 ഉം v 4 മൂന്ന് നോഡുകളുമാണ് അതുപോലെ v3 v4 എന്നിവ ദയവായി r KCL പ്രയോഗിക്കുക അതനുസരിച്ച് ദയവായി അത് പരിഹരിക്കുക എല്ലാം ഇപ്പോൾ വിശദീകരിച്ചു അതിനാൽ സമാനമായി നോഡ് 3 നോഡ് 4 എന്നിവയിൽ എഴുതുകയാണെങ്കിൽ ഈ സമവാക്യം ലഭിക്കും പ്രയോഗിച്ചാൽ നോഡ് 4 ന് ഈ സമവാക്യം ലഭിക്കും അതിനാൽ അവസാനമായി ഇത് ലളിതമാക്കുമ്പോൾ ഇത് സമവാക്യം 1 ഈ സമവാക്യം 2 ഉം ഇത് സമവാക്യം 3 ഉം ആണ് അതിനാൽ നോഡ് 3 ന് നോഡ് 4 പ്രയോഗിക്കും നോഡ് 4 കെസിഎൽ പ്രയോഗിക്കാൻ അനുവദിക്കുക എല്ലാം മനസിലാക്കി ദയവായി അത് ചെയ്യുക അതിനാൽ സമാന തരത്തിലുള്ളതും വ്യത്യസ്തമായ നിരവധി ഉദാഹരണങ്ങൾ വിശദീകരിച്ചിരിക്കുന്നതിനാലും ഈ രീതിയിൽ ഇത് എടുക്കാം അതിനാൽ ഇത് പരിഹരിച്ചാൽ r v1 10 വോൾട്ട് v3 20 വോൾട്ടും v4 15 വോൾട്ടും ലഭിക്കും അവസാനമായി r v3 v2 എന്താണെന്ന് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ v2 കണ്ടെത്താൻ ആവശ്യപ്പെട്ടു r കണ്ടെത്തുക അതിനാൽ r v2 ഇത് കണ്ടെത്താൻ ശ്രമിക്കുക ഇത് v2 ആണ് അതിനാൽ എടുക്കുക ഇത് r v3 ആണ് ഇത് നില സാധ്യതയാണ് KVL ഇതുപോലെ എടുക്കുക അതിനാൽ ഇത് 40 ആയിരിക്കും കാരണം ഘടികാരദിശയിൽ പോയാൽ ടെർമിനൽ ഏറ്റുമുട്ടൽ v3 r v2 v2 ഇത് 0 ആണ് കാരണം v2 കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ v2 r 40 v3 അതിനാൽ v 3 ന് 20 ലഭിച്ചിരിക്കാമെന്ന് കരുതുക അതിനാൽ ഇത് 20 ആണ് അതിനാൽ ഇത് 20 വോൾട്ട് അതായത് v2 ഇവിടെ r v2 20 40 20 വോൾട്ട് കാരണം v2 ന് r ലഭിച്ചു v3 ന് 20 വോൾട്ട് ലഭിച്ചു അതിനാൽ ആത്യന്തികമായി ഇത് 20 വോൾട്ട് ഏത് ഘട്ടത്തിലും വോൾട്ടേജ് എങ്ങനെ കണക്കാക്കാമെന്ന് മനസിലാക്കി അതിനാൽ r ന് എന്ത് ചെയ്യും സ്വന്തം പരിശീലനം ഇവിടെ ഉണ്ടെങ്കിൽ അതിന് ഈ വോൾട്ട് അല്ലെങ്കിൽ വോൾട്ട് നൽകിയിട്ടുണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ കാര്യം എത്രമാത്രം വിതരണം ചെയ്യുന്നുവെന്ന് കണ്ടെത്തുക ഈ 6 ആമ്പിയർ കറന്റ് സോഴ്സ് ഈ 10 ആമ്പിയർ കറന്റ് സോഴ്സ് ഈ 40 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് എന്നിവ എത്രമാത്രം വിതരണം ചെയ്യുന്നുവെന്നതും പ്രോബ്ലെത്തിൽ നൽകിയിട്ടില്ല ഓരോ റെസിസ്റ്ററിലും എത്രമാത്രം ആഗിരണം ചെയ്യുന്നുവെന്ന് കണ്ടെത്തുക തുടർന്ന് ആബ്സോർബുകൾ വിതരണം ചെയ്തതിന് തുല്യമാണെന്ന് കരുതുക അത് ശരിയാണോ അല്ലയോ എന്ന നോക്കുക പൊരുത്തപ്പെടുന്നെങ്കിൽ r ഉത്തരം ശരിയാണ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചില കണക്കുകൂട്ടൽ പിശകുകൾ ഉണ്ട് അതിനാൽ ഇത് ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ നോഡ് വോൾട്ടേജ് വിശകലനം അവസാനിച്ചുകഴിഞ്ഞാൽ അടുത്തത് മെഷ് വിശകലനത്തിനായി പോകും സർക്യൂട്ട് വേരിയബിളുകളായി മെഷ് കറന്റ് ഉപയോഗിച്ച് സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള പൊതുവായ ഒരു മുന്നേറ്റമാണ് മെഷ് വിശകലനം യഥാർത്ഥത്തിൽ നോഡൽ വിശകലനമോ മെഷ് വിശകലനമോ ആണോ എന്നത് യഥാർത്ഥത്തിൽ ഇതു r നെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷേ നിരീക്ഷണത്തിൽ സമവാക്യങ്ങളുടെ എണ്ണം കുറവായിരിക്കും അതായത് r ന്റെ മത്സരം കുറവായിരിക്കും മെഷ് കറന്റ് ഉപയോഗിച്ചുള്ള സർക്യൂട്ട് വേരിയബിളുകൾ സൌകര്യപ്രദമാണ് ഒപ്പം ഒരേസമയം പരിഹരിക്കേണ്ട സമവാക്യങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ഒന്നിലധികം തവണ നോഡ് കടന്നുപോകാത്ത ഒരു അടുത്ത പാതയാണ് ലൂപ്പ് മെഷ് ഒരു ലൂപ്പാണെങ്കിൽ അത് അതിനുള്ളിൽ മറ്റൊരു ലൂപ്പും മുറിക്കുന്നില്ല അതിനാൽ മെഷ് ലൂപ്പാണെന്ന് ലൂപ്പ് എന്താണെന്ന് പിന്നീട് പറയും പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് ഒരു മെഷ് തന്നെ ഒരൊറ്റ ലൂപ്പാണ് പക്ഷേ ഒരു ലൂപ്പിൽ മറ്റ് ലൂപ്പുകളും ഉണ്ടാകാം പക്ഷേ മെഷ് ഒരൊറ്റ ലൂപ്പായിരിക്കുമ്പോൾ അതിനുള്ളിൽ മറ്റൊരു ലൂപ്പും ഉണ്ടാകണമെന്നില്ല എന്നാൽ ഒരു ലൂപ്പിൽ മറ്റ് ലൂപ്പുകളും ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഒന്നിലധികം തവണ നോഡ് പാസ് ഇല്ലാത്ത ഒരു അടുത്ത പാത ലൂപ്പ് മെഷ് ഒരു ലൂപ്പാണെങ്കിൽ അതിൽ മറ്റൊരു ലൂപ്പും അടങ്ങിയിട്ടില്ല അതിനാൽ r ലൂപ്പും തുടർന്ന് നോഡ് ലൂപ്പും മെഷും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അതിനാൽ ഇത് മെഷ് ആണ് ഇത് ലൂപ്പാണ് തന്നിരിക്കുന്ന സർക്യൂട്ട് നോഡൽ വിശകലനത്തിന് യഥാർത്ഥത്തിൽ കെസിഎൽ പ്രയോഗിക്കുക അജ്ഞാത വോൾട്ടേജ് ലഭിക്കുന്നതിന് മെഷ് KVL പ്രയോഗിക്കുന്നു അതിനാൽ നോഡൽ വിശകലനവും KCL പ്രയോഗിച്ചു മെഷ് വിശകലനത്തിനായി KVLന് അജ്ഞാത വൈദ്യുത പ്രവാഹങ്ങൾ നേടുക മെഷ് വിശകലനം നോഡൽ വിശകലനം പോലെ പൊതുവായതല്ല കാരണം ഇത് സർക്യൂട്ടുകൾക്ക് മാത്രമേ ബാധകമാകൂ ഇത് യഥാർത്ഥത്തിൽ പ്ലാനർ ആണ് ഇത് യഥാർത്ഥത്തിൽ പ്ലാനർ സർക്യൂട്ട് ആയ ഒരു സർക്യൂട്ടിന് ബാധകമാണ് ശാഖകളില്ലാതെ പ്ലെയിൻ ഉപരിതലത്തിൽ വരയ്ക്കാൻ കഴിയുന്ന സർക്യൂട്ടിനെ പ്ലാനർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു പ്ലെയിൻ ഉപരിതലത്തിൽ ഒരു സർക്യൂട്ട് വരയ്ക്കാം ശാഖകളൊന്നും പരസ്പരം കടക്കാതെയുള്ള സർക്യൂട്ട് പ്ലാനർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു അല്ലാത്തപക്ഷം ഇത് പ്ലാനർ അല്ലാത്ത സർക്യൂട്ട് ആണ് അതിൽ r മെഷ് വിശകലനം പ്രയോഗിക്കാൻ കഴിയില്ല അതിനാൽ സർക്യൂട്ട് r ന് ക്രോസിംഗ് ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കാം പക്ഷേ പ്ലാനർ അത് വീണ്ടും വരയ്ക്കാൻ കഴിയുമെങ്കിൽ അതിന് ക്രോസിംഗ് ബ്രാഞ്ചുകളില്ല രേഖാചിത്രം നൽകിയിരിക്കുന്നത് അത് ശാഖകൾ മുറിച്ചുകടക്കുന്നതാണ് എന്നാൽ ക്രോസിംഗ് ശാഖകളില്ലാത്ത രീതിയിൽ വീണ്ടും വരയ്ക്കാൻ കഴിയുമെങ്കിൽ സർക്യൂട്ട് പ്ലാനർ ആകാം നോഡൽ വിശകലനം ഉപയോഗിച്ച് പ്ലാനർ അല്ലാത്ത സർക്യൂട്ടുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും പക്ഷേ അവ ഇവിടെ പരിഗണിക്കില്ല യഥാർത്ഥത്തിൽ ഇത് ഒരു അധ്യായമായി വായിക്കുന്നു കുറച്ച് സ്ഥലങ്ങൾക്ക് ഇത് ഒരു പുസ്തകമായിരിക്കും പക്ഷേ പൂർത്തിയായില്ല അതിനാൽ ഇത് ഒരു അധ്യായമായി വായിക്കുക ഒരു പുസ്തകമായി കണക്കാക്കരുത് വിശകലനം ഈ അധ്യായത്തിൽ പരിഗണിക്കില്ല മനസിലാക്കുന്നതിനായി ഇതു ബുക്ക് ആയിട്ട് വായിക്കരുത് പക്ഷേ ദയവായി ഇത് ഒരു അധ്യായമായി വായിക്കുക മനസ്സിലാക്കുന്നതിനായി ഇവയുടെ പാത പരിഗണിക്കേണ്ടതുണ്ട് മെഷും ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം കാണും